v0 ut എങ്ങനെ പ്രതിനിധീകരിക്കാമെന്ന് ഇതിനകം കണ്ടു ഇത് v0 ut ആണ് സ്റ്റെപ്പ് യൂണിറ്റ് ഫംഗ്ഷൻ നോക്കിയാൽ നമുക്ക് അറിയാം t0 ആയാൽ u 0 ആണ് അത് 0 നെക്കാൾ വലുതാണെങ്കിൽ n ut യുടെ വാല്യൂ 1 ആണ് അതിനർത്ഥം ഈ സ്ഥാനത്തെ സ്വിച്ച് 1 ഉം 2 ഉം ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് v12 0 ആയിരിക്കും രണ്ടാമത്തെ കാര്യം സ്വിച്ച് ഈ സ്ഥാനത്ത് നിന്ന് t 0 എന്ന സ്ഥാനത്തേക്ക് നീങ്ങുന്നുവെങ്കിൽ ആ സമയത്ത് n v12 v0 ആയിരിക്കും അതിനാൽ ഇതെല്ലാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ കറന്റ് ഒരു സോഴ്സ് i3u എടുക്കുകയും അതിന്റെ ഇക്വിവാലെന്റ സർക്യൂട്ട് കാണിക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക ഇത് i3ut ആണ് നമുക്കറിയാം t 0 ആയിരിക്കുമ്പോൾ i3ut 0 ആയിരിക്കും അതേ പോലെ t 0 ആയിരിക്കുമ്പോൾ ut 1 ആയിരിക്കും ഇങ്ങിനെ ആണ് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ സ്വിച്ച് t 0 ന് തുല്യമായ ടൈംൽ തുറക്കുക എന്നാൽ സ്വിച്ച് ഈ സ്ഥാനത്ത് t 0 ആയിരിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് തുറന്നിരിക്കും അതിനർത്ഥം i t 0 അല്ലേ സ്വിച്ച് ഈ സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനത്തേക്ക് നീങ്ങുമ്പോൾ അതിനർത്ഥം ഇത് ഇവിടെ കണക്റ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് i t i3 ശരിയാണ് അതിനാൽ i 3 ut എന്നതിന്റെ അർത്ഥമാണിത് അതിനർത്ഥം t0 ൽ ut 0 എന്നതിനും t t 0 നും ut 1 നും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ് ആ സമയത്തെ ക്ഷണികമായ പ്രശ്നങ്ങളിൽ ആ DC പരിഹരിക്കുമ്പോഴെല്ലാം സോഴ്സും പരിഗണിക്കും അതായത് v ut അല്ലെങ്കിൽ i ut അതിനാൽ i0 ut ന്റെ അർത്ഥം ഇതുപോലെയാണ് അല്ലേ അതിനാൽ ഇതാണ് ആശയം n ഇതുപോലെ സർക്യൂട്ടിനെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ സോഴ്സ് വോൾട്ടേജ് ഉറവിടത്തെയോ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കൊണ്ട് ഗുണിച്ചാൽ ആ സമയത്ത് സർക്യൂട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിയാം അടുത്തത് യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷനാണ് വാസ്തവത്തിൽ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷൻ അനുയോജ്യമായ ഉറവിടങ്ങൾ പോലെയാണ് ചിലപ്പോൾ ഫിസിക്കലി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലായിരിക്കും പക്ഷേ ഇത് സർക്യൂട്ട് വിശകലനത്തിനായി വളരെ ശക്തമായ ഗണിത ഉപകരണമാണ് അതിനാൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്നു നമുക്ക് നോക്കാം ഗണിതശാസ്ത്രപരമായി ഇതിനെ നമുക്ക് ഇങ്ങിനെ പ്രകടിപ്പിക്കാം Δ t എന്നാൽ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷനാണ് അതിനാൽ Δ t d t ut ആണ് അത് t 0 ക്കും t 0 ക്കും ആണ് ഇത് t 0 ആണ് ഇത് നിർവചിക്കപ്പെട്ടിട്ടില്ല t0 ക്കു ഇത് വീണ്ടും നിർവചിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷന്റെ നിർവചനം അതിനാൽ ഇതിനെ ചിലപ്പോൾ Δ ഫംഗ്ഷൻ എന്നും വിളിക്കുന്നു ഒരു കണ്ടെത്തലിൽ ഈ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷനെ Δ ഫംഗ്ഷൻ എന്നും വിളിക്കുന്നു അല്ലേ ഇത് ഇത് t ആണെന്ന് ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഇത് 0 സമയം 0 എന്നും ഇത് Δt എന്നും പറയുന്നു ഇവിടെ 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിനർത്ഥം യൂണിറ്റ് ഏരിയ 1 എന്നാണ് ഇത് യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷൻ ഇത് 1 എന്ന യൂണിറ്റ് ഏരിയയാണ് ഇതിനെ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷന്റെ സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നു അതിനാൽ വൈദ്യുത സർക്യൂട്ടിൽ ഇമ്പൾസിവ് വോൾട്ടേജും വൈദ്യുത പ്രവാഹവും സംഭവിക്കുന്നു വൈദ്യുത സർക്യൂട്ടുകളിൽ ഇമ്പൾസിവ് വോൾട്ടേജും വൈദ്യുത പ്രവാഹവും സംഭവിക്കുന്നത് സ്വിച്ച് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇമ്പൾസിവ് ഉറവിടങ്ങൾ മൂലമാണ് ഐഡിയൽ സോഴ്സ്സ് പോലെ തന്നെയാണ് ഐഡിയൽ റെസിസ്റ്റർ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷൻ കണ്ടാൽ തിരിച്ചറിയാനാകില്ല പക്ഷേ ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു ഗണിതശാസ്ത്ര ഉപകരണമാണ് ഇത് വിവിധ സർക്യൂട്ടുകളുടെ വിശകലനത്തിനായി വളരെ ഉപയോഗപ്രദമായ ഗണിത ഉപകരണമാണ് വളരെ വേഗമേറിയതോ ദൈർഖ്യം കുറഞ്ഞതോ ആയ ഒരു പ്രേരണയുടെ ഫലമാമായി ഒരു ചെറിയ യൂണിറ്റ് ഏരിയയിലെ ഒരു ചെറിയ പൾസ് ആയിട്ടാണ് യൂണിറ്റ് ഇമ്പൾസിനെ ചിത്രികരിച്ചിരിക്കുന്നതു ഗണിതശാസ്ത്രപരമായി 0 മുതൽ 0 t d t 1 വരെ മാറുന്നതിന് തൊട്ടുമുമ്പ് ഇത് സംയോജിപ്പിക്കാൻ കഴിയും ഈ ഏരിയയെ എന്ത് വിളിക്കാം ഇത് ഗണിതശാസ്ത്രപരമായി 0 0Δ t d t 1 ആകാം ഇത് യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷനാണ് എന്നാൽ ഈ പ്രദേശം 1 t 0 t 0 ന് മുമ്പുള്ള സമയം t 0 സമയം എന്നത് 0 ന് തുല്യമാണ് അല്ലേ അതിനാൽ 0 t മുതൽ 0 Δ t വരെ സംയോജനം Δ t dt 1 ഇത് സമവാക്യം 35 ആണ് ഇക്കാരണത്താൽ 1 യൂണിറ്റ് ഏരിയ എഴുതുന്നത് പതിവാണ് 1 ആ കണക്ക് ഞാൻ ശരിയായി പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രത്തിൽ ഇത് 1 എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് യൂണിറ്റ് ഏരിയയെ സൂചിപ്പിക്കുന്നു എന്നാണ് അതിനാൽ അതെങ്ങനെയെന്ന് കാണുക ഇക്കാരണത്താൽ 1 എഴുതുന്നത് പതിവാണ് അത് ഞാൻ കാണിച്ച ചിത്രം 30 ലെ പോലെ യൂണിറ്റ് ഏരിയയെ സൂചിപ്പിക്കുന്നു യൂണിറ്റ് ഏരിയയെ ഇംപൾസ് ഫംഗ്ഷന്റെ സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നു ഒപ്പം ഒരു ഇംപൾസ് ഫംഗ്ഷന് ഒരു ശക്തിയുണ്ടാകുമ്പോൾ ഐക്യമുണ്ടാകുമ്പോൾ പ്രേരണയുടെ വിസ്തീർണ്ണം അതിന് തുല്യമാണ് അതിനാൽ യഥാർത്ഥത്തിൽ യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷന്റെ വിസ്തീർണ്ണം ശരിക്കും ശക്തിയാണ് ഇവിടെത്തന്നെ അടിവരയിട്ടതിന് ഞാൻ ഇവിടെ അടിവരയിട്ടു ഉദാഹരണത്തിന് ഒരു ഇംപൾസ് ഫംഗ്ഷനുകൾ ഇവിടെ മാത്രം പറയുന്നു 8 Δ t പോലുള്ള ഒരു ഇംപൾസ് ഫംഗ്ഷന് 8 വിസ്തീർണ്ണമുണ്ട് അല്ലേ അതുപോലെ 4 Δ t 2 8 Δ t ന്റെ ഒരു ഇംപൾസ് ഫംഗ്ഷനെ വിളിക്കുകയും 4 ഇവിടെ കാണിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് 8 Δ t ആണ് അതിനാൽ ഇത് Δ t ആണ് അതിനാൽ ഇതാണ് സമയം 0 അതിനാൽ ഇതിന് ഇത് 8 Δ t എഴുതാൻ കഴിയും ഇപ്പോൾ t t 2 ന് 4 t Δ ന് t 2 ശരി അതിനാൽ ഇത് ഇവിടെ നിന്ന് ആരംഭിക്കും ഇത് 4 Δ t 2 ആണ് ഇത് വെറും പ്രചോദനാത്മക പ്രതികരണമാണോ അതുപോലെ തന്നെ 4 Δ t 2 അതിനാൽ t 2 അത് അതിനാൽ 4 Δ t 2 ഇതാണ് ഇംപൾസ് ഫംഗ്ഷന്റെ പ്രാതിനിധ്യം ഈ സാഹചര്യത്തിൽ അത് ശക്തി 8 ആണ് ഈ സാഹചര്യത്തിൽ അത് ശക്തി 4 ആണ് ഈ സാഹചര്യത്തിലും ഇത് ശക്തി 4 ആണ് അതിനാൽ ഇത് ഞാൻ കാണിച്ച 3 ഇംപൾസ് ഫംഗ്ഷനാണ് അതിനാൽ r ഫംഗ്ഷനിലെ ഇംപൾസ് ഫംഗ്ഷൻ ഇഫക്റ്റുകൾ വിശദീകരിക്കുന്നതിന് നമുക്ക് ഇന്റഗ്രൽ വിലയിരുത്താം അതായത് ഇംപൾസ് ഫംഗ്ഷൻ o r ഫംഗ്ഷനെയും ബാധിക്കുന്നു ഉദാഹരണത്തിന് ft Δ t t0 dt വലത്തേക്ക് ആ സംയോജനം ഏറ്റെടുക്കുക ഇപ്പോൾ t0 അതിനിടയിലും കിടക്കുന്നു മുതൽ t t0 0 t t0 ഒഴികെ കാരണം t t0 ൽ ഇത് നിർവചിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ശരിയല്ലേ വീണ്ടും 0 0 0 0 നൽകിയതെന്തും 0 0 ആയിരുന്നു പക്ഷേ t 0 ന് ഇത് നിർവചിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇവിടെ t t0 എടുക്കുന്നു അതിനാൽ ഇത് 0 ആണ് പക്ഷേ t t0 ഒഴികെ അതിനാൽ സംയോജനം t t0 ഒഴികെ 0 ആണ് കാരണം ഇത് നിർവചിക്കപ്പെട്ടിട്ടില്ല അതിനാൽ f t Δ t t0 d ന് എഴുതാൻ കഴിയും t t0 എഴുതാൻ കഴിയും കാരണം t ന് t0 ന് തുല്യമാണ് ഇത് ഒഴികെ Δ t t0 0 ഒഴികെ t0 0 refore ഒരു t t0 അത് f t0 Δ t t0 d t അല്ലെങ്കിൽ തുല്യമാണ് അത് f t0 പുറത്തുവരും അത് ഇവിടെത്തന്നെയാണ് n t t0 d t യിലേക്കുള്ള n സംയോജനം എന്നെ കുറച്ച് മുകളിലേക്ക് പോകാൻ അനുവദിക്കുക അതിനാൽ ഇവിടെ ഇപ്പോൾ ഇത് ശരിയാണ് അതിനാൽ t t0 d t f t0 ലേക്ക് കാരണം ഇത് യഥാർത്ഥത്തിൽ ആ പ്രദേശത്തെ എടുക്കുന്നു ആ ഐക്യം 1 ശരിയാണ് അതിനാൽ അത് f t0 റിഫോർ f t Δ t t0 d t f t0 അതിനാൽ ഇത് സമവാക്യം 36 ശരിയാണ് അതിനർത്ഥം എന്നെ അൽപ്പം മുകളിലേക്ക് നീക്കാൻ അനുവദിക്കുക അതിനർത്ഥം ഈ സമവാക്യം 36 യഥാർത്ഥത്തിൽ ഇത് സമവാക്യമാണ് ഇത് സമവാക്യമാണ് ഇത് സമവാക്യം 36 ആണ് ഒരു ഫംഗ്ഷൻ ഇംപൾസ് ഫംഗ്ഷനുമായി സംയോജിപ്പിച്ചിരിക്കുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു ഇംപൾസ് ഫംഗ്ഷൻ പ്രേരണ ശരിയായി സംഭവിക്കുന്നിടത്ത് ഫംഗ്ഷന്റെ മൂല്യം നേടുക ഇംപൾസ് ഫംഗ്ഷന്റെ ഈ പ്രോപ്പർട്ടി വളരെ ഉപയോഗപ്രദമാണ് ഇത് സാമ്പിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രോപ്പർട്ടി അവകാശം വേർതിരിക്കൽ എന്നറിയപ്പെടുന്നു അതിനാൽ ഇത് വളരെ പ്രധാനമാണ് സിഗ്നലുകളും നെറ്റ്വർക്കുകളും പോലുള്ള ഒരു കോഴ്സിൽ കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാണ് അല്ലേ അത് ഒരു വ്യത്യസ്ത കാര്യമാണ് എന്നാൽ ഇവിടെ കുറച്ച് മാത്രം കുറച്ച് പഠിക്കും അതിനാൽ ഒരു പ്രത്യേക കേസ് ശക്തമായ t0 0 ന് തുല്യമായി പരിഗണിക്കുക N സമവാക്യം 36 അതായത് ഈ സമവാക്യം t ഇവിടെ തുല്യമാണെങ്കിൽ അത് t0 0 ആണെങ്കിൽ ഇവിടെ അത് t0 0 ആണ് t0 0 n ആണെങ്കിൽ അത് 0 മുതൽ 0 f0 t dt f0 വരെ പറയും അതിനാൽ ഇവിടെ സമാനമായി അതിനർത്ഥം t t0 0 ആണെങ്കിൽ n അത് 0 മുതൽ 0 സംയോജനം f t d t f t Δ t d ആയിരിക്കും അത് f0 ആണ് കാരണം ഇത് ഞാൻ ഇത് നിർമ്മിക്കുന്നു ഇത് ഒന്ന് f0 n സംയോജനം 0 മുതൽ 0 Δ t d വരെ ശരിയാണ് ഈ ഭാഗം ഐക്യമാണ് അതിനാൽ ഇത് f0 ശരിയാണോ അതിനാൽ ഇതെല്ലാം ഇംപൾസ് ഫംഗ്ഷനെ സംബന്ധിച്ചാണ് ഈ കാര്യത്തിന്റെ പൂർണതയ്ക്കായി മാത്രമാണ് ഞാൻ ഇത് എടുത്തത് r സിംഗുലാരിറ്റി ഫംഗ്ഷനിൽ ധാരാളം ഉണ്ട് പക്ഷേ റാമ്പ് ഫംഗ്ഷന് ചില ഉദാഹരണങ്ങൾ വരും അതിനാൽ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ ഈ സാഹചര്യത്തിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ സമന്വയിപ്പിച്ചുകൊണ്ട് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ rt ലഭിക്കും സ്റ്റെപ്പ് ഫംഗ്ഷൻ സമന്വയിപ്പിക്കുകയാണെങ്കിൽ rt അനന്തതയെ t ut d t t ut എന്ന് എഴുതാൻ കഴിയുമോ അതിനാൽ rt യഥാർത്ഥത്തിൽ 0 കോട്ട 0 ന് തുല്യവും rt t കോട്ട 0 ന് തുല്യമായതിനേക്കാൾ വലുതും അതുകൊണ്ടാണ് അനന്തത t ut d t തുല്യമാണ് t ut ഇത് സമവാക്യം 38 ആണ് ഈ സമവാക്യം ഇതുപോലെ എഴുതാം rt 0 ort 0 ന് തുല്യവും t 0 നെക്കാൾ വലുതോ തുല്യമോ ആണ് ഇത് സമവാക്യം 39 ആണ് ഇതാണ് ഇത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ സംയോജനമാണ് ഒരു യൂണിറ്റ് ക്രമീകരണം ഒരു റാമ്പ് ഫംഗ്ഷൻ നേടാൻ ആഗ്രഹിക്കുന്നു അതിനാൽ സ്ഥിരമായ നിരക്കിൽ മാറുന്ന ഒരു പ്രവർത്തനമാണ് റാമ്പ് അതിനാൽ അടിസ്ഥാനപരമായി ഇത് നേർരേഖയുടെ സമവാക്യമാണ് അതിനാൽ t ന്റെ നെഗറ്റീവ് മൂല്യങ്ങൾക്ക് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ യൂണിറ്റ് 0 ആണ് കൂടാതെ t ന്റെ പോസിറ്റീവ് മൂല്യങ്ങൾക്ക് ഒരു യൂണിറ്റ് ചരിവുമുണ്ട് അതിനാൽ ചിത്രം 32 യൂണിറ്റ് റാമ്പ് പ്രവർത്തനം കാണിക്കുന്നു അതിനർത്ഥം t യുടെ നെഗറ്റീവ് മൂല്യത്തിന് ഇതാണ് ഇതുപോലുള്ള പ്ലോട്ട് ഇത് ഇതുപോലെ പ്ലോട്ട് ചെയ്യുന്നു അതിനാൽ ടി യുടെ നെഗറ്റീവ് മൂല്യം 0 ഉം t യുടെ പോസിറ്റീവ് മൂല്യത്തിന് ഇത് ശരിയായി കാണിക്കുന്നു ഇത് യൂണിറ്റാണ് ഇതും 1 ശരിയാണ് അതിനാൽ ഇത് ഒരു യൂണിറ്റ് ഘട്ടമാണ് റാമ്പ് പ്രവർത്തനം അടുത്തതായി യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ വിപുലീകരിക്കുകയോ വൈകുകയോ ചെയ്യാം മുമ്പും അങ്ങനെയാണെങ്കിൽ t0 വലതുവശത്ത് അത് t0 സമയം മുന്നേറുകയോ സമയം t0 വൈകുകയോ ചെയ്യാം വിപുലമായ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷന് ഇത് വിപുലമായ rt t0 നാണ് അതായത് അത് 0 ആണെങ്കിൽ t തുല്യമായ t0 ആണെങ്കിൽ അത് t t0 ആണെങ്കിൽ t t0 ന് തുല്യമാണെങ്കിൽ ഇത് സമവാക്യം 40 ആണ് ശരിയല്ലേ അതിനാൽ ഞാൻ ഇത് ശരിയായി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അഡ്വാൻസ് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ കാണിക്കുന്നു അതിനാൽ rt t0 അതിനാൽ ഇവിടെ അത് isourt t0 t tourt0 എന്നതിന് തുല്യമാണ് ഇത് t0 1 ആണ് ഈ വ്യത്യാസം ഞാൻ ഉദ്ദേശിക്കുന്നത് ദൂരം മാത്രമാണ് ഈ വ്യത്യാസത്തെ മാത്രം അകറ്റുക യഥാർത്ഥത്തിൽ ഈ വ്യത്യാസം യഥാർത്ഥത്തിൽ ഇത് 1 ആണ് കണക്കിലെടുക്കുമ്പോൾ ഈ 1 ന്റെ നീളം ഇത് ഇതും 1 ആണ് അതിനാൽ ഈ ഉയരവും 1 ആണ് അതിനാൽ ചരിവ് കൂടിയാണ് 1 നൂതന യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ ഇതാണ് ഇത് നൂതന യൂണിറ്റ് റാമ്പ് ഫംഗ്ഷനാണ് അല്ലേ ഇതാണ് ഈ പോയിന്റ് t0 1 അതിനാൽ ഇത് t0 ഈ വശത്തെ നെഗറ്റീവ് ആണെങ്കിൽ വരും പക്ഷേ ദൂരം 1 t0 ourt0 1 വലത് അതിനാൽ ഇത് അടിസ്ഥാനപരമായി t0 t0 1 അതിനാൽ ഇത് റദ്ദാക്കപ്പെടും 1 കാരണം ഇത് സമയ അക്ഷത്തിന്റെ നെഗറ്റീവ് ആക്സിസ് നെഗറ്റീവ് ഭാഗത്താണ് പക്ഷേ ദൂരം 1 ശരിയാണ് അതിനാൽ ഞാൻ ഇത് മായ്ക്കട്ടെ അതിനാൽ ഈ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ t0 വികസിപ്പിച്ചെടുത്തു ഇപ്പോൾ ഇത് വൈകുകയാണെങ്കിൽ അതിനായി റാമ്പ് ഫംഗ്ഷൻ വൈകിയാൽ n അത് rt t0 ആയിരിക്കും അല്ലേ അതിനർത്ഥം ഇത് 0 ശക്തമാണ് t0 അത് t t0 t0 ശരിയാണ് അതിനാൽ ഇത് ചിത്രം 34 ആണ് കാലതാമസം നേരിട്ട യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ കാണിക്കുന്നത് ഇത് യൂണിറ്റ് റാമ്പ് പ്രവർത്തനം ഡിലെ ചെയ്യുകയാണ് അതിനാൽ ഇത് t0 ൽ നിന്ന് ആരംഭിക്കുന്നു ഈ ദൂരം വീണ്ടും 1 വലത് t0 1 t0 1 ഇത് 1 അതിനാൽ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷനും ഈ rt t0 ഉം t0 വൈകിയ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷന്റെ പ്ലോട്ട് ഇതാണ് അതിനർത്ഥം കാലതാമസം നേരിടുമ്പോൾ അത് വലതുവശത്ത് t0 ന് തുല്യമായിരിക്കും എപ്പോഴാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് ആരംഭിക്കുന്നത് എന്നാൽ ഇത് t0 ആയിരിക്കും അത് 0 ആയിരിക്കും അതുപോലെ അത് പുരോഗമിക്കുമ്പോൾ അത് വരുന്നു അത് എവിടെ നിന്നെങ്കിലും ആരംഭിക്കുന്നു t t0 വലത് അതിനാൽ ഇത് t0 വൈകിയ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷനാണ് അതിനാൽ അടുത്തത് അതിനാൽ ഈ ഘട്ടത്തിൽ കൂടുതൽ സിംഗുലാരിറ്റി ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിലും ഈ 3 വ്യത്യസ്ത ഫംഗ്ഷനുകളുടെ രസം കുറച്ച് മാത്രമേ നൽകിയിട്ടുള്ളൂ ഇംപൾസ് ഫംഗ്ഷൻ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ റാംപ് എന്നിവയിൽ മാത്രമേ താൽപ്പര്യമുള്ളൂ 3 സിംഗുലാരിറ്റി ഫംഗ്ഷനുകൾ ഇംപൾസ് സ്റ്റെപ്പും റാമ്പും ഇനിപ്പറയുന്ന രീതിയിൽ വ്യത്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ അത് നോക്കുകയാണെങ്കിൽ അത് Δ t എന്നത് d ut നെ d t ന്റെ വലത് വ്യത്യാസമാണ് അതുപോലെ റാംപ് ഫംഗ്ഷൻ d rt യെ d t വലത് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ വഴി വേർതിരിക്കുന്നത് അനന്തത t Δ t d t വലത്തേക്ക് അതുപോലെ തന്നെ റാമ്പ് ഫംഗ്ഷന് rt അനന്തത t ut d t വലത്തേക്ക് ഇത് ut t ut ന്റെ വ്യത്യാസവും ut rt യുടെ വ്യത്യാസവുമാണെങ്കിൽ എന്നാൽ r വഴി ifintegrate ut ആയിരിക്കും അനന്തത t Δ t d t ഉം rt ഉം ആയിരിക്കും അനന്തത t ut d t ഇത് 42 ഉം ഇത് സമവാക്യം 43 ഉം ആണ് അതിനാൽ അടുത്തതായി 1 അല്ലെങ്കിൽ 2 ലളിതമായ ഉദാഹരണം എടുക്കുക വോൾട്ടേജ് പൾസ് ചിത്രം 35 ൽ തന്നെ പ്രകടിപ്പിക്കുന്നതിനാണ് ഇത് നൽകിയിരിക്കുന്നത് ഇത് ചിത്രം 35 ആണ് യൂണിറ്റ് സ്റ്റെപ്പ് അനുസരിച്ച് ഇത് ഡെറിവേറ്റീവ് ആണെന്ന് നിർണ്ണയിക്കുകയും സ്കെച്ച് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ഗേറ്റ് ഫംഗ്ഷനാണെന്ന് തോന്നുന്നു ഇത് ഒരു ഗേറ്റ് ഫംഗ്ഷനാണ് യഥാർത്ഥത്തിൽ സമയം t 3 സെക്കൻഡ് യഥാർത്ഥത്തിൽ ആശയം ഇതുപോലെയാണ് ഈ ഗ്രാഫ് ഇതുപോലെയാണ് അതിനാൽ ഇത് ഒരു വോൾട്ടേജ് പൾസാണ് അതിനാൽ t 3 സമയത്ത് അത് സ്വിച്ച് ഓൺ ചെയ്യുകയും സമയം t 6 എന്ന് പറയുകയും ചെയ്യുന്നു അത് വലതുവശത്ത് സ്വിച്ച് ഓഫ് ആണ് അതിനാൽ ഇത് ഒരു ഗേറ്റ് ഫംഗ്ഷനാണ് അതായത് ഈ വോൾട്ടേജ് ഇത് v ടി ആണെന്നും ഈ വോൾട്ടേജ് 10 വോൾട്ട് വലത്താണെന്നും കാണേണ്ടതുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി ഇത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ പ്രവർത്തനമാണ് അതിനാൽ t 3 ൽ രണ്ടാമത് അത് സ്വിച്ച് ഓഫ് ആണെന്നും t 6 അത് സ്വിച്ച് ഓഫ് ആണെന്നും പറയുക ഇത് ഒരു ഗേറ്റ് ഫംഗ്ഷനാണ് അതിനാൽ ഇത് എങ്ങനെ ലഭിക്കും അതിനാൽ ഇതെല്ലാം ശരിയായി എഴുതിയതാണ് അതിനാൽ ഇത് ഒരു ഗേറ്റ് ഫംഗ്ഷനാണ് അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് t 3 സെക്കൻഡിൽ അത് സ്വിച്ച് ഓഫ് ചെയ്യുകയും t 6 സെക്കൻഡ്t 3 സെക്കൻഡിൽ അത് സ്വിച്ചുകൾ സ്വിച്ച് ചെയ്യുകയോ t 3 സെക്കൻഡിൽ സ്വിച്ച് ചെയ്യുകയോ ചെയ്യുന്നു h മുമ്പ് ഇത് 3 സെക്കന്റിന് തുല്യമായ സ്വിച്ച് ഓൺ ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്യുന്നു t 6 സെക്കന്റിന് തുല്യമാണ് അതിനർത്ഥം ചിത്രം 36 ൽ കാണിച്ചിരിക്കുന്നതുപോലെ 2 യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനുകളുടെ ആകെത്തുക ഇതിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അത് സ്വിച്ചുചെയ്യുമ്പോൾ ഒരു മൂല്യം 10 വോൾട്ട് നൽകി v t ശരി ഇത് 10 വോൾട്ട് ആണ് അതിനാൽ ഇത് t 3 ൽ സ്വിച്ചുചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ 10 ut 3 ആയിരിക്കും ശരി അത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ t 6 സെക്കൻഡിൽ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അത് 10 ut 6 വലത് അതിനാൽ അത് സ്വിച്ചുചെയ്യുമ്പോൾ 10 ut u 3 വലത് t ന് 6 സെക്കന്റിന് തുല്യമായി സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അത് 10 ut 6 ആയിരിക്കും ഇപ്പോൾ അതിനർത്ഥം ഈ ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ ഈ ഫംഗ്ഷൻ ഈ ഗേറ്റ് ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ 2 യൂണിറ്റിന്റെ ആകെത്തുക ഒരു ഫംഗ്ഷൻ ഇത് ഒരു ചിഹ്നം ഇവിടെയുണ്ട് ഞാൻ ഇത് ഉണ്ടാക്കി ശരി തുല്യമാണ് ഇത് ഗണിതശാസ്ത്രപരമായി ഇതുപോലെ എഴുതുക ഇത് 10 ut 3 10 ut 6 ആയിരിക്കും കാരണം ഇത് ഇത് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ചിത്രം 35 ആയ ഈ ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ ഇതാണ് സെ 2 യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇത് സെ 2 സ്റ്റെപ്പ് ഫംഗ്ഷന്റെ സംഗ്രഹമായി സെ 2 സ്റ്റെപ്പ് ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് ഗേറ്റ് പ്രവർത്തനത്തിന്റെ വിഘടനമാണ് ഇതും ഇതും അതിനാൽ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ v t തുല്യമാണ് അത് 10 ut 3 is isour ആയിരിക്കും ഇത് ഒന്ന് 10 ut 6 അതിനർത്ഥം ഇത് 10 ut 3 10 ut 10 ആയിരിക്കും പൊതുവായ ut ut ut 6 right എടുക്കുക ഈ ഗേറ്റ് ഫംഗ്ഷന്റെ v ടി യുടെ പ്രതിനിധാനം ഈ ഒരു dv യുടെ ഡെറിവേറ്റീവ് ഞാൻ dt വഴി എടുക്കുകയാണെങ്കിൽ അത് ഡെറിവേറ്റീവ് ആണെങ്കിൽ അത് Δ ഇംപൾസ് ഫംഗ്ഷനായിരിക്കും 10 Δ t 3 Δ t 6 ആയിരിക്കും Δ function ഡെറിവേറ്റീവ് യു ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ റാമ്പിന്റെ ഡെറിവേറ്റീവ് ആണ് അതിനാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഈ d v യുടെ ഡെറിവേറ്റീവ് d t 10 എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് Δ t 3 ആയിരിക്കും ഇത് Δ പ്രവർത്തനം Δ t 3 Δ t 6 ആയിരിക്കും ശരി ഇപ്പോൾ d t പ്രകാരം v സ്കെച്ച് ചെയ്താൽ അത് ഒരു Δ ഫംഗ്ഷനാണ് അതിനാൽ t 3 ന് അത് ശക്തി 10 ആണ് അതിനാൽ ഇത് 10 ആയിരിക്കും t 3 സെക്കൻഡിൽ ഇത് പ്ലോട്ട് ചെയ്യുന്നു അനോ റിത്തിംഗ് 6 ന് തുല്യമാണ് അതായത് 10 അത് ടി ടി 6 ന് തുല്യമാണ് 10 അതിനാൽ ഇത് 10 ഇതാണ് 10 ഇത് ശരിയായി പ്ലോട്ട് ചെയ്തിരിക്കുന്നു അതിനാൽ ഇത് 10 Δ t ആയതിനാൽ ശക്തി 10 ആണ് ശരിയാണ് അതിനാൽ ഒരാൾക്ക് എങ്ങനെ ആ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യാൻ കഴിയും ഇതാണ് കാര്യങ്ങൾ വളരെ ലളിതമാണ് ഇത് ഈ ചിത്രം പോലെയാണ് ഇത് ഒരു സ്ടൂത്ത് ഫംഗ്ഷൻ കാണിക്കുന്നു സിംഗുലാരിറ്റി ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ ഈ ഫംഗ്ഷൻ പ്രകടിപ്പിക്കുക ഇത് ഒരു സ്ടൂത്ത് ഫംഗ്ഷൻ ശരിയായി നൽകിയിരിക്കുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു റാമ്പ് ഫംഗ്ഷനാണ് കൂടാതെ ഒരു ഗേറ്റ് ഫംഗ്ഷൻ അതിനാൽ ഇത് ഒരു ചരിവാണ് ഇത് ഈ ഉയരമാണ് ഈ ഉയരമാണ് ഇത് 12 വലത് ഇത് ഇവിടെ നിന്ന് ഇവിടെ 3 ആണ് അതിനാൽ ഇത് ചരിവ് 12 ബൈ 3 4 ഈ നേർരേഖയ്ക്ക് ചരിവ് 4 അപ്പോൾ ഇത് എങ്ങനെ പ്രതിനിധീകരിക്കും v t വലത് എങ്ങനെ പ്രതിനിധീകരിക്കും അതിനാൽ ഒരു സൂക്ഷ്മ നിരീക്ഷണം വെളിപ്പെടുത്തുന്നത് v t എന്നത് ഒരു റാമ്പ് ഫംഗ്ഷന്റെ ഗുണനമാണ് ഇത് ഒരു റാമ്പ് ഫംഗ്ഷനാണ് ഒരു ഗേറ്റ് ഫംഗ്ഷൻ ഗേറ്റ് ഫംഗ്ഷൻ എന്നിങ്ങനെ മറ്റൊരു കാര്യം ഇത് t 3 ൽ ആണെന്ന് കരുതുക T 3 ന് അത് ഒരു റാമ്പിൽ പോകുന്നുവെന്നും t 3 ന് വലതുവശത്ത് സ്വിച്ച് ഓഫ് ചെയ്യുന്നുവെന്നും കരുതുക അതിനാൽ ചിത്രം 38 ന്റെ സൂക്ഷ്മ നിരീക്ഷണം v t എന്നത് ഒരു റാമ്പ് ഫംഗ്ഷന്റെയും ഗേറ്റ് ഫംഗ്ഷന്റെയും ഗുണനമാണെന്ന് വെളിപ്പെടുത്തുന്നു അതിനാൽ റാമ്പ് ഫംഗ്ഷന്റെ ചരിവ് 4 ആണ് v t എന്ന് വിളിക്കപ്പെടുമ്പോൾ അത് 4 t ആയിരിക്കും n അത് ut ut 3 വലത് ആയിരിക്കും ഈ രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും കാരണം ചരിവ് 4 ഉം ചരിവ് 4 ഉം റാമ്പ് ഫംഗ്ഷന്റെ ഒരു ഉൽപ്പന്നവും ഗേറ്റ് ഫംഗ്ഷനും ശരിയാണ് ഇത് ചരിവ് 4 ആയിരിക്കും അതിനാൽ ഇത് ഒരു റാമ്പ് ഫംഗ്ഷനാണ് അടിസ്ഥാനപരമായി ഇത് ഉത്ഭവ വലതുവശത്തുകൂടി കടന്നുപോകുന്ന ഒരു നേർരേഖയാണ് അതിനാൽ ഈ നേർരേഖയുടെ സമവാക്യം ആയിരിക്കും ഈ നേർരേഖയ്ക്ക് v t v t 4 t മാത്രം അതിനർത്ഥം n ന് 4 t ut thatut 3 എന്നിവ പ്രതിനിധീകരിക്കാൻ കഴിയും ഈ സമയത്ത് അത് സ്വിച്ച് ഓഫ് ആണെന്ന് കരുതുക അതിനാൽ 4 t ut 4 t ut 3 അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് അർത്ഥമാക്കുന്നത് ഇന്ന് രാത്രി മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ ചരിവ് 4 ചരിവാണ് ആ നേർരേഖയുടെ 4 സമവാക്യം 4 ടി ആണ് ടി 3 സെക്കൻഡിൽ എന്തെങ്കിലും സ്വിച്ച് ഓഫ് ആണെന്ന് കരുതുക n അത് 4 ടി ut 4 t ut 3 വലത് ആയിരിക്കും അതിനാൽ അത് 4 t ut ut 3 അതിനാൽ ഇത് ഗുണിക്കുക അതിനാൽ ഇത് 4 t ut 4 t ut 3 ആയിരിക്കും ഈ t ക്ക് ഇത് എഴുതാൻ കഴിയും t 3 t 3 3 ശരി Th ഇത് 4 rt 4 rt എന്ന് എഴുതാൻ കഴിയും അതിനാൽ 4 t 3 ut 3 ഇത് അതിനാൽ 12 അത് ut 3 അതിനാൽ ഇത് 4 rt 4 t ut 3 12 ut 3 അതായത് ഇത് 4 rt റാമ്പ് ഫംഗ്ഷൻ 4 rt 3 അത് വികസിതമോ കാലതാമസമോ ആണ് ഇതിനകം കാണിച്ചിരിക്കുന്നത് റാമ്പ് ഫംഗ്ഷനിൽ വലത് അതിനാൽ 4 rt 3 12 ut 3 അതിനാൽ ഇതാണ് ഉത്തരം ചില ഉറവിടങ്ങൾ പരിഗണിച്ച് RC സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് പ്രതികരണത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ചെറിയ വോൾട്ടേജ് സോഴ്സ് സർക്യൂട്ട് പരിഹരിക്കുമ്പോൾ അല്പം ആശയം ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത് ഒരു ലളിതമായ കാര്യമാണ് അത് എങ്ങനെ തകർക്കാമെന്ന് ഞാൻ പറഞ്ഞു ചെറിയ പ്രശ്നം വളരെയധികം പ്രശ്നമല്ല ഇതിനെക്കുറിച്ച് പഠിക്കും പക്ഷേ ചില ആശയങ്ങൾ നൽകുന്നത് അറിയാൻ അതുകൊണ്ടാണ് ഇത് ഇതുപോലെയാക്കിയത് ചില ഉദാഹരണം ശരിയാണ് r സിംഗുലാരിറ്റി ഫംഗ്ഷൻ ഈ കോഴ്സിൽ പരിഗണിക്കില്ല ഇത് അടിസ്ഥാനപരമായ അവകാശത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അതിനാൽ അടുത്തത് ഒരു ആർസി സർക്യൂട്ടിന്റെ സ്റ്റെപ്പ് പ്രതികരണമാണ് ഈ സ്റ്റെപ്പ് പ്രതികരണം DC കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് ഉറവിടത്തിന്റെ പെട്ടെന്നുള്ള പ്രയോഗം മൂലമുള്ള സർക്യൂട്ടിന്റെ പ്രതികരണമാണ് കാരണം ഇവിടെ താൽപ്പര്യം ഡിസി ക്ഷണികമാണ് അതാണ് ആദ്യത്തെ ഓർഡർ സർക്യൂട്ട് ei r r സർക്യൂട്ട് അല്ലെങ്കിൽ RL സർക്യൂട്ട് വലത് അതിനാൽ ഈ കോഴ്സിൽ RLC സർക്യൂട്ട് അല്ലെങ്കിൽ LC സർക്യൂട്ട് പരിഗണിക്കില്ല രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ട് പരിഗണിക്കില്ല അതിനാൽ സ്റ്റെപ്പ് റെസ്പോൺസ് എന്നത് ഒരു ഡ്DC കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് ഉറവിടത്തിന്റെ പെട്ടെന്നുള്ള ആപ്ലിക്കേഷൻ മൂലമുള്ള സർക്യൂട്ടിന്റെ പ്രതികരണമാണ് അതിനാൽ ചിത്രം 39 ഇത് ചിത്രം 39 വലത് ആർസി സർക്യൂട്ട് കാണിക്കുന്നു ഇവിടെ വി s ഒരു സ്ഥിരമായ ഡിസി വോൾട്ടേജ് ഉറവിടമാണ് ഇത് യഥാർത്ഥത്തിൽ ആർസി സർക്യൂട്ട് ആണ് ഇത് ആർസി സർക്യൂട്ട് വി എസ് ഒരു സ്ഥിരമായ വോൾട്ടേജ് ഉറവിടമാണ് ഒന്ന് കപ്പാസിറ്റർ ആണ് ഇത് തുടക്കത്തിൽ ചാർജ്ജ് ചെയ്യപ്പെടാം തുടക്കത്തിൽ ചാർജ്ജ് ചെയ്യപ്പെടില്ല അതിനാൽ ശക്തമായ 0 ൽ ഈ സ്വിച്ച് തുറന്നു t 0 ന് സ്വിച്ച് അടയ്ക്കുന്നതിന് തൊട്ടുമുമ്പ് വലത് 0 of0 അടച്ചിരിക്കുന്നു സ്വിച്ച് ചെയ്തതിനുശേഷം അത് 0 വലത് അതിനാൽ സ്വിച്ച് വലത് 0 അടച്ചിരിക്കുന്നു അതിനാൽ ഇത് ഒരു RC സർക്യൂട്ട് ആണ് ഇതിനെ Vsut എന്ന് പ്രതിനിധീകരിക്കാം ഇതാണ് സോഴ്സ് വോൾട്ടേജ് ഈ സ്വിച്ച് അടച്ചിരിക്കുന്നു ഇതിനെ V s ut R C എന്ന് എഴുതാം യഥാർത്ഥത്തിൽ ആശയം ഈ കോട്ട പോലെയാണ് 0 യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കോട്ട അറിയുക 0 ut 0 കോട്ട 0 ut 1 അതിനാൽ t 0 ആയിരിക്കുമ്പോൾ ഈ വോൾട്ടേജ് ഉറവിടം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു അല്ലേ അതിനാൽ സർക്യൂട്ടിൽ ഒന്നും കാണിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ut 0 അതിനാൽ ഇവിടെയും utut 0 ആണെങ്കിൽ സ്വിച്ച് അടയ്ക്കുമ്പോൾ മുന്നോട്ട് 0 വലത് ut 1 അതുകൊണ്ടാണ് ഇതിനെ പ്രതിനിധീകരിക്കാം ഈ സർക്യൂട്ടിനെ ഈ V s ut പോലെ പ്രതിനിധീകരിക്കാം അതിനർത്ഥം വോൾട്ടേജ് സ്റ്റെപ്പ് ഇൻപുട്ട് ഉള്ള ഒരു RC സർക്യൂട്ട് അടിസ്ഥാനപരമായി ഇത് ഒരു വോൾട്ടേജ് സ്റ്റെപ്പ് ഇൻപുട്ടാണ് ഞാൻ തുറന്നിരിക്കുമ്പോൾ ഇവിടെ നിന്ന് അർത്ഥമാക്കുന്നത് ശരിയാണ് പക്ഷേ സ്വിച്ച് അടച്ചയുടനെ അത് ഒരു സ്റ്റെപ്പ് ഇൻപുട്ടായി പോകുന്നുവെങ്കിൽ അതിനാൽ അതുകൊണ്ടാണ് വോൾട്ടേജ് സ്റ്റെപ്പ് ഇൻപുട്ട് V s ut ഉള്ള ചിത്രം 39 ന്റെ ഒരു സർക്കിട്ട് ഇതാണ് കറന്റ് i t ഇത് കറന്റ് i t ശരിയാണ് അതിനാൽ രോമങ്ങൾ ചലിപ്പിക്കുന്നതിന് മുമ്പ് രോമങ്ങൾ ചലിപ്പിക്കുന്നതിന് മുമ്പ് r ഇതുപോലെ ഞാൻ എടുത്ത കറന്റ് ദിശ ഇവിടെ നിന്ന് ഇതുപോലുള്ള ഒരു നോഡ് ഇഫ്റ്റേക്ക് എടുക്കുക എന്ന് കരുതുക ആദ്യം നമുക്ക് എന്താണ് ടി എന്ന് നോക്കാം കെവിഎൽ പ്രയോഗിക്കുക അതിനാൽ ഇത് ഘടികാരദിശയിൽ വലതുവശത്തേക്ക് നീങ്ങുന്നതായിരിക്കും v വലത് V s വലത് V s എഴുതുക എന്നാൽ കോട്ട 0 എങ്കിൽ 0 n അത് 1 വലത് അതിനാൽ അതിനർത്ഥം ഇത് V R i t v ആയിരിക്കും 0 വലത്തിന് തുല്യമാണ് അതിനർത്ഥം എന്റെ i t V s v എന്നത് R കൊണ്ട് ഹരിക്കപ്പെടും കോട്ട 0 ആയിരിക്കുമ്പോൾ അത് അടച്ചിരിക്കും ut 1 വലത് അതിനർത്ഥം i t ഈ ദിശ കറന്റ് ദിശ ഇതുപോലെയാണ് n ഇത് ഒന്ന് v V s ആയിരിക്കും അത് വിപരീതമാക്കും അത് V V s ന് ശേഷം r ആണ് ഈ വർഷം ഞാൻ 1 എന്ന് പറഞ്ഞാൽ ഈ കറന്റ് എന്നാണ് അർത്ഥമാക്കുന്നത് ഈ വശം ഇത് എടുത്താൽ അടിസ്ഥാനപരമായി i 1 right i t t ഞാൻ ഇവിടെ ഇടുന്നില്ല ഉം ഈ വശവും ഞാൻ ശരിയാണ് അതിനർത്ഥം എന്റെ i c c d v by d t വലത് അതിനർത്ഥം ഈ സമയത്ത് ഈ നോഡ് എ ആണെന്ന് കരുതുക ഇതുപോലെ സൃഷ്ടിക്കുക ഈ ഘട്ടത്തിൽ ഞാൻ കെസിഎൽ പ്രയോഗിക്കുന്നു അതിനർത്ഥം എനിക്ക് i 1 i c 0 അതിനർത്ഥം ഇത് എന്റെ V V s ആയി R c d v കൊണ്ട് d t 0 വലത് കൊണ്ട് ഹരിക്കുന്നു എല്ലാ ദിശകളും ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നാൽ ഞാൻ ഈ ഘട്ടത്തിൽ കെസിഎല്ലു കൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ ദിശയിൽ ഈ ദിശ എടുക്കുക ഈ ദിശ മാറ്റുമ്പോൾ ഇത് V V S ഉം കോട്ടയും 0 ut 1 അത് V s ആയിരിക്കും എന്ന് കരുതുക അല്ലേ അതിനർത്ഥം ഈ സമവാക്യത്തിൽ നിന്ന് ഈ സർക്യൂട്ട് പരിഹരിക്കാൻ ശ്രമിക്കണം